നമ്മൾ ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ തുടരും കഴിഞ്ഞ തവണ ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ എന്തൊക്കെയാണ് അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് അവ എന്തിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ ഒരു ആമുഖം നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ഡാറ്റാബേസ് ട്രാൻസാക്ഷന്റെ ഒരു മേഖലയെ കൂടുതൽ വിശദമായി പരിശോധിക്കും അതായത് റിക്കവറി സിസ്റ്റംസ് ഇന്നത്തെ വിഷയം റിക്കവറി സിസ്റ്റംസിനെക്കുറിച്ചാണ് ഒരു ട്രാൻസാക്ഷൻ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഒരു പിഴവ് സംഭവിക്കുകയോ ചെയ്താൽ ഡാറ്റാബേസ് എങ്ങനെ വീണ്ടെടുക്കും റിക്കവറി മാനേജുമെന്റ് സിസ്റ്റം നിലനിർത്താൻ ശ്രമിക്കുന്ന രണ്ട് പ്രോപ്പർട്ടികൾ ആറ്റോമിസിറ്റിയും ഡ്യൂറബിലിറ്റിയുമാണ് റിക്കവറി മാനേജുമെന്റ് സിസ്റ്റം ലക്ഷ്യമിടുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇവ ആറ്റോമികതയും ഡ്യൂറബിലിറ്റിയും കവർ ചെയ്യും റിക്കവറി മാനേജുമെന്റ് സംവിധാനങ്ങൾ ഫേൽ സ്റ്റോപ് അസമ്പ്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രധാന അനുമാനം ഉണ്ടാക്കുന്നു നോൺ വോളടൈൽ സ്റ്റോറേജിലുള്ള ഡാറ്റ ഒരിക്കലും നഷ്ടമാകില്ല എന്നതാണ് ഈ ഫേൽ സ്റ്റോപ് അസമ്പ്ഷനിൽ എന്ന് അനുമാനിക്കുന്നു എന്താണ് നോൺ വോളടൈൽ സ്റ്റോറേജ് ഇത് മാഗ്നറ്റിക് ഡിസ്കുകൾ മുതലായവയാണ് അത് ഒരിക്കലും നഷ്ടമാകില്ല അത് എങ്ങനെ നഷ്ടപ്പെടാതിരിക്കുമെന്ന് നിങ്ങൾ വാദിച്ചേക്കാം കാരണം മാഗ്നറ്റിക് ഡിസ്ക് കേടായേക്കാം തകർന്നേക്കാം നഷ്ടപ്പെട്ടേക്കാം മുതലായവ സംഭവിക്കാം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് റിക്കവറി മാനേജുമെന്റ് സിസ്റ്റങ്ങളുടെ അനുമാനം നോൺ വോളടൈൽ സ്റ്റോറേജിൽ ഡാറ്റയുടെ മതിയായ ബാക്കപ്പുകൾ ഉണ്ടായിരിക്കും എന്നതാണ് ആവശ്യമുള്ളപ്പോൾ അത് എപ്പോഴും വീണ്ടെടുക്കാവുന്നതാണ് സിസ്റ്റം ക്രാഷ് പവർ ഫേലിയർ തുടങ്ങിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നോൺ വോളടൈൽ സ്റ്റോറേജിൽ ഡാറ്റ നഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഫേൽ സ്റ്റോപ് അസമ്പ്ഷൻ അവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല റിക്കവറി മാനേജുമെന്റ് സിസ്റ്റങ്ങൾക്ക് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് ആദ്യത്തേത് സാധാരണ നിർവ്വഹണ സമയത്ത് എടുത്ത പ്രവർത്തനമാണ് അതായത് ഒരു ട്രാൻസാക്ഷൻ സാധാരണയായി പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഒരു പരാജയത്തിന് ശേഷം എടുക്കുന്ന നടപടി റിക്കവറി സിസ്റ്റംസിന്റെ രണ്ടാം ഭാഗം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് റിക്കവറി എന്ന വാക്കിന്റെ അർത്ഥം എന്തോ കുഴപ്പം സംഭവിച്ചു എന്നാണ് അതുകൊണ്ടാണ് നിങ്ങൾ ആ തെറ്റിൽ നിന്ന് റിക്കവർ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഒരു പരാജയം ഉണ്ടായത് പരാജയം അനുമാനിക്കപ്പെടുന്നു അതിൽ നിന്ന് അത് വീണ്ടെടുക്കേണ്ടതുണ്ട് പരാജയമില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല എല്ലാ ട്രാൻസാക്ഷനുകളും വിജയകരമായി പ്രവർത്തിക്കുന്നു റിക്കവറി മാനേജുമെന്റ് സിസ്റ്റം ആഹ്വാനം ചെയ്തിട്ടില്ല പഠിക്കേണ്ട വിഷയം ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അത് സംഭവിക്കുന്നു എന്നതാണ് റിക്കവറി മാനേജുമെന്റ് സിസ്റ്റങ്ങളുടെ രണ്ട് പ്രധാന ഘട്ടങ്ങളാണ് ഇവ നമ്മൾ ഈ റിക്കവറി മാനേജുമെന്റ് സിസ്റ്റം പഠിക്കുമ്പോൾ മറ്റൊരു അനുമാനം എന്തെന്നാൽ ട്രാൻസാക്ഷനുകൾ സീരിയലായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഒരേസമയം ട്രാൻസാക്ഷനുകൾ ഉണ്ടാകില്ല ഇത് അൽപ്പം അനുയോജ്യമല്ലാത്തതായി തോന്നാം ഇത് എങ്ങനെ സംഭവിക്കും റിക്കവറി സംവിധാനങ്ങളുടെ കൃത്യതയെക്കുറിച്ചോ അൽഗോരിതമിക് വീക്ഷണങ്ങളെക്കുറിച്ചോ ഉള്ള വാദം ട്രാൻസാക്ഷനുകൾ എങ്ങനെ ഒത്തുചേരുന്നു മുതലായവയെ ആശ്രയിക്കുന്നില്ല ലാളിത്യത്തിനായി ട്രാൻസാക്ഷനുകൾ സീരിയലായി പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഇവ രണ്ടും ഒരു റിക്കവറി മാനേജുമെന്റ് സിസ്റ്റത്തിന്റെ അനുമാനങ്ങളാണ് ഇത് അടിസ്ഥാനപരമായി ഒരു റിക്കവറി മാനേജുമെന്റ് സംവിധാനമാണ് ഒരൊറ്റ ട്രാൻസാക്ഷനെക്കുറിച്ചും അത് പരാജയപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കും നമ്മൾ ആദ്യം ഈ ലോഗ് ബേസ്ഡ് റിക്കവറി നടത്തുന്നു നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതുപോലെ എഴുതിയ രേഖകളാണ് ലോഗ് ഒരു ട്രാൻസാക്ഷന്റെ ഒരു ലോഗിനായി അഞ്ച് തരം എൻട്രികൾ ഉണ്ട് ഒരു സ്റ്റേബിൾ സ്റ്റോറേജിൽ ലോഗ് പരിപാലിക്കുന്നു ഒരു സ്റ്റേബിൾ സ്റ്റോറേജ് എന്താണ് ഇത് സെക്കൻഡറി സ്റ്റോറേജ് അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവ് ആണ് സ്റ്റേബിൾ സ്റ്റോറേജ് ആശയം എന്തെന്നാൽ ലോഗ് ഒരിക്കലും നഷ്ടമാകില്ല എന്നതാണ് സ്റ്റേബിൾ സ്റ്റോറേജ് അർത്ഥമാക്കുന്നത് എന്തെങ്കിലും സംഭരിച്ചുകഴിഞ്ഞാൽ അത് ഒരിക്കലും നഷ്ടമാകില്ല എന്നാണ് നഷ്ടപ്പെട്ടതെന്തും എപ്പോഴും വീണ്ടെടുക്കാനാകും അതാണ് ഫേൽ സ്റ്റോപ് അസമ്പ്ഷൻ ആശയം നമ്മൾ കഴിഞ്ഞ തവണ കാണിച്ചതുപോലെ രേഖകൾ ഉണ്ട് ഒരു ട്രാൻസാക്ഷൻ ആരംഭിക്കുമ്പോഴെല്ലാം സ്റ്റാർട്ട് ടി ഉണ്ട് ഒരു വായന അല്ലെങ്കിൽ എഴുത്ത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തിയ രേഖകൾ ആയിരിക്കും ലോഗിൽ നടത്തിയ അനുബന്ധ എൻട്രികൾ ഇത് വളരെ പ്രധാനമാണ് വായിക്കുകയോ എഴുതുകയോ ചെയ്യുന്നതിനുമുമ്പ് ലോഗ് അപ്ഡേറ്റ് ചെയ്യും അതിനാൽ ഡാറ്റ ഇനത്തിൽ ഒരു റീഡ് അല്ലെങ്കിൽ റൈററ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ലോഗ് എഴുതുന്നു സമയം 0451 കാണുക ഇത് മുമ്പാണ് അത് വളരെ പ്രധാനമാണ് ട്രാൻസാക്ഷൻ വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ ഒരു കമ്മിറ്റ് ടി ഉണ്ട് അല്ലാത്തപക്ഷം ഒരു അബോർട്ട് T ഉണ്ട് ഈ അഞ്ച് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ലോഗ് അടിസ്ഥാനമാക്കിയുള്ള രണ്ട് തരം സമീപനങ്ങളുണ്ട് വീണ്ടെടുക്കാൻ രണ്ട് വഴികളുണ്ട് ആദ്യത്തേതിനെ ഡിഫർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു ലോഗുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു റിക്കവറി മാനേജുമെന്റ് സംവിധാനമാണിത് ഡിഫർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ എന്താണ് ഇവിടെ പ്രധാന കാര്യം എല്ലാ എഴുത്തും പാർഷ്യൽ കമ്മിറ്റിനു ശേഷം മാറ്റിവയ്ക്കുന്നു ഡാറ്റാബേസിൽ യഥാർത്ഥത്തിൽ എഴുതുന്നില്ല ട്രാൻസാക്ഷൻ നോട്ട് ചെയ്യും എന്താണ് എഴുതേണ്ട കുറിപ്പുകൾ എന്ന് എന്നാൽ ഇവ യഥാർത്ഥത്തിൽ ഡാറ്റാബേസിൽ എഴുതിയിട്ടില്ല ട്രാൻസാക്ഷൻ ഭാഗികമായി നടക്കുമ്പോൾ മാത്രമേ ഈ എഴുത്തുകൾ സംഭവിക്കുകയുള്ളൂ പാർഷ്യൽ കമ്മിറ്റ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം ഒരു ട്രാൻസാക്ഷന്റെ പാർഷ്യൽ കമ്മിറ്റ് സംഭവിക്കുന്നത് ട്രാൻസാക്ഷൻ അതിലെ എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ ആണ് എന്ത് സംഭവിക്കാം രണ്ട് കേസുകൾ സംഭവിക്കാം ട്രാൻസാക്ഷനിൽ എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നു പിന്നെ ഈ എഴുത്തുകൾ പിന്നീട് ഒന്നിനുപുറകെ ഒന്നായി കടന്നുപോകാം സമയം കാണുക 0631 ആ കാര്യങ്ങളെല്ലാം കടന്നുപോകാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു പരാജയം ഉണ്ട് ഒരു പരാജയം ഉണ്ടെങ്കിൽ ഈ പാർഷ്യലി കമ്മിറ്റഡ് ഘട്ടത്തിൽ എത്താൻ കഴിയില്ല പക്ഷേ ഒരു തകരാറുണ്ടെങ്കിൽ ഡാറ്റാബേസിന്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ഇത് പാർഷ്യലി കമ്മിറ്റഡ് ഘട്ടത്തിൽ എത്തിയിട്ടില്ല എഴുതുന്നവയൊന്നും യഥാർത്ഥത്തിൽ ഡാറ്റാബേസിലേക്ക് പോയിട്ടില്ല ട്രാൻസാക്ഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഡാറ്റാബേസ് ഈ സ്റ്റേറ്റിലാണ് ഡാറ്റാബേസിൽ ഒന്നും മാറ്റിയിട്ടില്ല യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല കാരണം ട്രാൻസാക്ഷൻ ഡാറ്റാബേസിൽ ഒന്നുമില്ല എല്ലാ എഴുത്തുകളും ചില താൽക്കാലിക സംഭരണത്തിലേക്കാണ് പ്രധാന മെമ്മറിയിലോ മറ്റെവിടെയെങ്കിലുമോ ആകാം ഡാറ്റാബേസുകളിൽ ഒന്നും യഥാർത്ഥത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കാരണം പാർഷ്യലി കമ്മിറ്റഡ് ഘട്ടത്തിൽ എത്തിയിട്ടില്ല കാരണം ചില പരാജയങ്ങൾ ഉണ്ടായേക്കാം അതിനാൽ ഒന്നും ചെയ്യേണ്ടതില്ല വളരെ രസകരമായ ഒരു കാര്യം എഴുത്ത് രേഖയ്ക്ക് പഴയ മൂല്യം ആവശ്യമില്ല എന്നതാണ് എന്തുകൊണ്ടാണ് ഇത് അത് പഴയപടിയാക്കേണ്ടതില്ല കാരണം പുതിയ മൂല്യങ്ങൾ മാത്രം രേഖപ്പെടുത്തേണ്ടതുണ്ട് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ എഴുതുക അത് പാർഷ്യലി കമ്മിറ്റഡാകുമ്പോൾ അതായത് എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ട്രാൻസാക്ഷനുകളും വിജയകരമാണ് പഴയ മൂല്യത്തിലേക്ക് തിരികെ പോകേണ്ട ആവശ്യമില്ല കാരണം ഡാറ്റാബേസിൽ ഇതിനകം പഴയ മൂല്യം അടങ്ങിയിരിക്കുന്നു എൻട്രികൾ ഈ മാറ്റിവച്ച ഡാറ്റാബേസ് പരിഷ്ക്കരണത്തിനുള്ളതാണ് എഴുത്ത് എൻട്രികൾ എന്നാൽ വെറും ട്രാൻസാക്ഷൻ എഴുതുക ഡാറ്റ ഇനവും അതിന്റെ പുതിയ മൂല്യവും എന്താണെന്ന് ഇത് പറയുന്നു അതാണ് പഴയ മൂല്യം ആവശ്യമില്ല ട്രാൻസാക്ഷൻ ഭാഗികമായി ചെയ്തുകഴിഞ്ഞാൽ കമ്മിറ്റ് ടി എൻട്രി ലോഗിലേക്ക് എഴുതുന്നു കമ്മിറ്റ് ടി ലോഗിൽ എഴുതിയിട്ട് ഈ ലോഗ് സ്ഥിരതയുള്ള സംഭരണത്തിലേക്ക് സൂക്ഷിക്കുന്നു ഈ ലോഗ് സ്ഥിരതയുള്ള സംഭരണത്തിലേക്ക് ഒഴുകുന്നു ലോഗിലെ ഓരോ റെക്കോർഡും പിന്നീട് സ്ഥിരതയുള്ള സംഭരണത്തിലേക്ക് സൂക്ഷിക്കുന്നു തുടർന്ന് രണ്ട് കാര്യങ്ങളുണ്ട് വീണ്ടും സംഭവിക്കുന്നത് രണ്ട് കേസുകളുണ്ട് ഒരിക്കൽ കമ്മിറ്റ് ടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിനർത്ഥം ട്രാൻസാക്ഷൻ ശരിയായി പൂർത്തിയാക്കണം എന്നാണ് ട്രാൻസാക്ഷൻ യഥാർത്ഥത്തിൽ ശരിയായി അവസാനിക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ സൂക്ഷിക്കുന്ന എല്ലാ എഴുത്തുകൾക്കും ഡാറ്റാബേസിന് പ്രഭാവം ഉണ്ടായിരിക്കണം ലോഗിൽ നിന്ന് ഒരാൾക്ക് എല്ലാ ഫലങ്ങളും എങ്ങനെ ലഭിക്കും ഡാറ്റാബേസ് യഥാർത്ഥത്തിൽ ലോഗിൽ നിന്ന് എല്ലാ പുതിയ എഴുത്ത് മൂല്യങ്ങളും ശേഖരിക്കുകയും എഴുതുന്നത് തുടരുകയും ചെയ്യുന്നു ഇതാണ് എഴുത്ത് അവിടെ ആദ്യത്തെ റൈറ്റ് ഓപ്പറേഷൻ പിന്നെ രണ്ടാമത്തെ റൈറ്റ് ഓപ്പറേഷൻ തുടങ്ങിയവ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ എഴുത്തുകൾ എല്ലാം വിജയകരമാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല ഓരോ എഴുത്തും കടന്നുപോയിട്ടുണ്ടെന്ന് ഡാറ്റാബേസുകൾ ഉറപ്പാക്കുന്നു അല്ലാത്തപക്ഷം എന്തെല്ലാം സംഭവിക്കാം ഈ എഴുത്തിന്റെ സമയത്ത് ഒരു പ്രശ്നമുണ്ടാകാം കാരണം ഒരു സിസ്റ്റം ക്രാഷ് ഉണ്ട് ഒരു പരാജയം ഉണ്ട് മുതലായവ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും ഒന്നുമില്ല കാരണം അടുത്ത തവണ സിസ്റ്റം വരുമ്പോൾ സിസ്റ്റം ഈ ലോഗ് പരിശോധിക്കുകയും ഈ എഴുത്തുകൾ വീണ്ടും ചെയ്യുവാൻ ശ്രമിക്കും അത് വിജയിക്കുന്നതുവരെ ഈ ലോഗ് ശ്രമിച്ചുകൊണ്ടിരിക്കും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമതായി ഈ കമ്മിറ്റ് ടി പാർഷ്യലി കമ്മിറ്റ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ലോഗിലേക്ക് എഴുതുന്നു abort T എൻട്രി അതായത് T ട്രാൻസാക്ഷനുള്ള അബോർട്ട് എൻട്രിയും ആവശ്യമില്ല മാറ്റിവച്ച ഡാറ്റാബേസ് പരിഷ്ക്കരണത്തിൽ പഴയ മൂല്യം ആവശ്യമില്ലാത്തത് പോലെ അത് ആവശ്യമില്ല എന്തുകൊണ്ടാണത് അബോർട്ട് ആവശ്യമില്ല കാരണം അബോർട്ട് എപ്പോഴാണ് സംഭവിക്കുന്നത് ഒരു ട്രാൻസാക്ഷൻ പരാജയപ്പെടുമ്പോൾ ചില പരാജയം സംഭവിക്കുന്നു ട്രാൻസാക്ഷൻ പരാജയപ്പെടുമ്പോൾ അത് മറ്റെന്തെങ്കിലും ചെയ്യുന്നത് നിർത്തുകയും അത് പുനരാരംഭിക്കുകയും ചെയ്യും എന്തുകൊണ്ട് അത് ശരിയാണ് കാരണം ട്രാൻസാക്ഷൻ ഇതുവരെ ഒന്നും ഡാറ്റാബേസിലേക്ക് മാറ്റിയിട്ടില്ല ട്രാൻസാക്ഷൻ യഥാർത്ഥത്തിൽ ഡാറ്റാബേസിലേക്ക് എന്തെങ്കിലും മാറ്റുന്നത് കമ്മിറ്റ് ടി എൻട്രി ചെയ്തതിനുശേഷം മാത്രം ആയിരിക്കും ഇതിനർത്ഥം ട്രാൻസാക്ഷനിലെ എല്ലാം വിജയകരമായി കടന്നുപോയി എന്നാണ് ട്രാൻസാക്ഷന് ഇത് നിർത്തലാക്കേണ്ടതില്ല ഇതാണ് അബോർട്ട് ടി എൻട്രി ഒരിക്കലും ഉപയോഗിക്കാത്തത് കാരണം അത് ഒരിക്കലും എഴുതിയിട്ടില്ല ഒരു സിസ്റ്റം ക്രാഷ് സംഭവിച്ചുവെന്ന് കരുതുക അതിനാൽ എല്ലാം വിജയകരമായി തുടരുകയാണെങ്കിൽ അത് നല്ലതാണ് ഒരു സിസ്റ്റം ക്രാഷ് സംഭവിക്കുകയാണെങ്കിൽ റിക്കവറി മാനേജുമെന്റ് സിസ്റ്റത്തിന്റെ ഡാറ്റാബേസ് എന്താണ് ചെയ്യുന്നത് അത് ലോഗ് വായിക്കുകയും എല്ലാ ലോഗ് റെക്കോർഡുകളും കണ്ടെത്തുകയും ചെയ്യുന്നു ഒരു കമ്മിറ്റ് എൻട്രി കമ്മിറ്റ് ടി എൻട്രി ഉള്ള എല്ലാ ട്രാൻസാക്ഷനുകളും ഇത് കണ്ടെത്തുന്നു ഈ കമ്മിറ്റ് ടി എൻട്രി കണ്ടെത്തിയില്ലെങ്കിൽ രണ്ട് കേസുകളുണ്ട് ഇത് കണ്ടെത്തിയില്ലെങ്കിൽ ഇതിനർത്ഥം ഈ ട്രാൻസാക്ഷനെക്കുറിച്ചുള്ള എഴുത്തുകൾ ഒന്നും ആരംഭിച്ചിട്ടില്ല എന്നാണ് പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല മറുവശത്ത് ട്രാൻസാക്ഷൻ കമ്മിറ്റഡാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എല്ലാം വിജയിക്കണമെന്നാണ് ട്രാൻസാക്ഷനെ സംബന്ധിച്ച എല്ലാ റൈററും ചെയ്യേണ്ടതുണ്ട് ഇവ പ്രയോഗിക്കേണ്ടതുണ്ട് ഇത് വീണ്ടും വീണ്ടും പ്രയോഗിക്കേണ്ടതുണ്ട് ഇതിനെ റീഡൂ ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നു ആ എഴുത്തുകൾ ഡാറ്റാബേസിൽ ചെയ്യേണ്ടതുണ്ട് ഇനിപ്പറയുന്ന ചോദ്യം ഇതാണ് ഈ ട്രാൻസാക്ഷന്റെ ഭാഗമായി രണ്ട് എഴുത്ത് എൻട്രികൾ ഉണ്ട് എഴുതുക T x 14 എന്നിട്ട് ഒരു എഴുതുക T y 12 ഉണ്ട് പ്രശ്നം ട്രാൻസാക്ഷൻ എഴുതിയിരിക്കുന്നു കമ്മിറ്റ് ടി കൂടാതെ ഒരു സിസ്റ്റം ക്രാഷ് ഉണ്ട് സിസ്റ്റം ക്രാഷ് ഈ ഘട്ടത്തിലോ ഈ ഘട്ടത്തിലോ ഈ ഘട്ടത്തിലോ സംഭവിക്കാം ഈ എഴുത്ത് രേഖകൾ ആറ്റോമിക് ആണെന്ന് നമ്മൾ കരുതുന്നു ഒന്നുകിൽ ഈ പൂർണ്ണമായ എഴുത്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഇത് ഈ കേസുകളെല്ലാം നമുക്ക് ഓരോന്നായി എടുക്കാം ഈ ഘട്ടത്തിൽ ഒരു സിസ്റ്റം ക്രാഷ് സംഭവിച്ചുവെന്ന് കരുതുക ഇപ്പോൾ നമ്മൾ ഈ റീഡു ഓപ്പറേഷൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്തും ചെയ്യുന്നു അതിനാൽ നമ്മൾ ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് എഴുതുകയാണ് അത് ശരിയാണ് രണ്ടാമത്തെ കേസ് ഇത് ഈ ഘട്ടത്തിലാണ് സംഭവിച്ചത് ആദ്യ റൈററ് കടന്നുപോയി രണ്ടാമത്തെ റൈററ് കടന്നുപോയിട്ടില്ല ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ലോഗ് അല്ലെങ്കിൽ ഡാറ്റാബേസ് അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റത്തിന് അത് കടന്നുപോയിട്ടുണ്ടോ x വിജയകരമായി എഴുതിയോ ഇല്ലയോ എന്ന് അറിയാൻ ഒരു മാർഗവുമില്ല അത് വിജയകരമായി എഴുതിയോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല അത് ഇപ്പോഴും മുന്നോട്ട് പോയി x ന്റെ പുതിയ മൂല്യം എഴുതുന്നു x പഴയ മൂല്യം ആയിരിക്കാം അല്ലെങ്കിൽ അതിന് പുതിയ മൂല്യം 14 ഉണ്ടായിരിക്കാം അത് പ്രശ്നമല്ല കാരണം പുതിയ മൂല്യം 14 വീണ്ടും x ന് എഴുതപ്പെടും അത് ഒരിക്കൽ കൂടി ചെയ്യുന്നു ഇത് ചെയ്യുന്നത് ഒരുപക്ഷേ ഫലപ്രദമല്ല ആ പ്രവർത്തനം വീണ്ടും വീണ്ടും പക്ഷേ അത് ശരിയാണ് അത് പ്രധാനമാണ് അത് ശരിയാണ് പിന്നെ തീർച്ചയായും ടി എഴുതിയിരിക്കുന്നു ഒടുവിൽ മൂന്നാമത്തെ കേസ് രണ്ടും എഴുതിയിരിക്കുന്നു പക്ഷേ ഡാറ്റാബേസിന് ഇത് അറിയില്ലായിരുന്നു വീണ്ടും അത് പ്രശ്നമല്ല അത് വീണ്ടും വീണ്ടും എഴുതപ്പെടുന്നു ഇവിടെ പ്രധാന കാര്യം ഇനിപ്പറയുന്നവയാണ് ഈ റീഡു പ്രവർത്തനം ഒന്നിലധികം തവണ ചെയ്തേക്കാം x എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും എഴുതപ്പെട്ടേക്കാം ഇത് ഐടെംപൊട്ടൻറ് പിന്തുടരണം ഇതൊരു സുപ്രധാന പദമാണ് ഐടെംപൊട്ടൻറ് എന്നത് ഒന്നിലധികം പ്രവർത്തനങ്ങൾക്ക് ഒരൊറ്റ പ്രവർത്തനത്തിന് സമാനമായ ഫലമുണ്ടെന്ന് ആദർശം അർത്ഥമാക്കുന്നു ഒരു റൈറ്റ് ഓപ്പറേഷൻ ഒന്നിലധികം തവണ ആവർത്തിക്കുന്നത് ഒരിക്കൽ ചെയ്യുന്ന അതേ ഫലം നൽകുന്നു ഉദാഹരണത്തിൽ 14 ന്റെ മൂല്യം x ലേക്ക് ഒന്നിലധികം തവണ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് 14ന്റെ മൂല്യം x ലേക്ക് ഒരിക്കൽ എഴുതുന്ന അതേ ഫലമുണ്ട് ഫലമാണ് അത് പ്രശ്നമല്ല റീഡു ഐടെംപൊട്ടൻറായിരിക്കണം കാരണം 14 എന്ന മൂല്യം വീണ്ടും വീണ്ടും എഴുതുന്നത് സംഭവിക്കാം ഇപ്പോൾ ഈ റീഡു ആവശ്യമാണ് എന്നാൽ അൺണ്ടു ആവശ്യമില്ല ഈ ഡിഫർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ സ്കീമിനെ ചിലപ്പോൾ നോ അൺണ്ടു റീഡു റിക്കവറി സ്കീം no undoredo recovery scheme എന്ന് വിളിക്കുന്നു ഡിഫർഡ് ഡാറ്റാബേസ് കാര്യങ്ങൾക്കുള്ള അവസരമാണിത് അൺണ്ടു ആവശ്യമില്ല പക്ഷേ റീഡു ചെയ്യൽ ആവശ്യമാണ് അതിനാൽ ഇതിനെ നോ അൺണ്ടു റീഡു റിക്കവറി സ്കീം എന്ന് വിളിക്കുന്നു ഇത് പൂർത്തിയാക്കാൻ ലോക്കിൽ ദൃശ്യമാകുന്ന ക്രമത്തിൽ വീണ്ടും ചെയ്യേണ്ടതുണ്ട് അല്ലാത്തപക്ഷം തെറ്റായ കാര്യങ്ങൾ ഉണ്ടായേക്കാം അത് ചെയ്യുന്നതിന് ഒരു ചെറിയ ഉദാഹരണം മറ്റേതെങ്കിലും ട്രാൻസാക്ഷൻ വഴി മറ്റൊരു എഴുത്ത് ഉണ്ടെന്ന് കരുതുക റൈററ് T x 16 ഇപ്പോൾ അന്തിമ മൂല്യം നോട്ട് ചെയ്യണം കാരണം x സാധാരണമാണ് അത് ഈ രീതിയിൽ ചെയ്യണം അന്തിമ മൂല്യം 16 ആയിരിക്കണം ലോഗിൽ ദൃശ്യമാകുന്ന പ്രവർത്തനത്തിൽ വീണ്ടും ചെയ്യേണ്ടതുണ്ട് അടുത്ത സ്കീമിലേക്ക് പോകുന്നതിനുമുമ്പ് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഈ കാര്യങ്ങളുടെ ഒരു പൂർണ്ണ ഉദാഹരണം ഇതാ ഒരു സ്റ്റാർട്ട് T0 ഉണ്ട് അതാണ് ആദ്യത്തെ പ്രവർത്തനം അതിനുശേഷം T0 ന്റെ ഒരു എഴുത്ത് ചില ഡാറ്റ ഇനം A യ്ക്ക് ഒരു മൂല്യം എഴുതുന്നു അതായത് 9 അപ്പോൾ ഒരു കമ്മിറ്റ് T0 ഉണ്ട് തുടർന്ന് T0 ചെയ്യുന്നു തുടർന്ന് T1 ആരംഭിക്കുന്നു സ്റ്റാർട്ട് T1 ഇത് സീരിയൽ ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു തുടർന്ന് അതേ A യ്ക്ക് T1 ന്റെ എഴുത്ത് മൂല്യം 7 ഉണ്ട് തുടർന്ന് ഒരു പ്രതിബദ്ധതയുണ്ട് കമ്മിറ്റ് T1 ഇതാണ് ആദ്യം പിന്തുടരാൻ ഉദ്ദേശിച്ചത് എന്ന് കരുതുക റൈററ് T0 A 9 സ്റ്റേറ്റ് മെൻറിനു ശേഷം ഒരു ക്രാഷ് ഉണ്ടെന്ന് കരുതുക അതിനാൽ ഈ ഘട്ടത്തിൽ ഒരു തകർച്ചയുണ്ട് എന്താണ് സംഭവിക്കുന്നത് ലോഗ് തിരയുമ്പോൾ കമ്മിറ്റ് സ്റ്റേറ്റ്മെൻറിൽ ഒരു ട്രാൻസാക്ഷൻ കണ്ടെത്തിയില്ല ഒന്നും ചെയ്യേണ്ടതില്ല കാരണം ഒന്നും ചെയ്തിട്ടില്ല അതിനാൽ ഡാറ്റാബേസിലേക്കുള്ള ഈ ട്രാൻസാക്ഷൻ ഒന്നും എഴുതുന്നില്ല ഒന്നും മാറ്റേണ്ടതില്ല അടുത്ത കാര്യം ഈ റൈററ് T1 A 7 സ്റ്റേറ്റ്മെൻറിനു ശേഷം ഒരു ക്രാഷ് ഉണ്ടെന്ന് കരുതുക അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ലോഗ് തിരയുകയും ഇവിടെ ഇത് കമ്മിറ്റ് T0 കണ്ടെത്തുകയും ചെയ്യുന്നു T0 ന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ചെയ്യേണ്ടതുണ്ട് ഈ റൈററ് T0 A 9 പ്രവർത്തനം വീണ്ടും ചെയ്യുന്നു പക്ഷേ T1 ൽ ഒന്നും ചെയ്യേണ്ടതില്ല കാരണം T1 കമ്മിറ്റഡ് അല്ല എയുടെ മൂല്യം 7 ആയിരിക്കരുത് അത് 7 അല്ല കാരണം അത് കമ്മിറ്റഡ് അല്ല പുതിയ മൂല്യം 7 എയിലൂടെ കടന്നുപോയിട്ടില്ല ഒടുവിൽ ക്രാഷ് കമ്മിറ്റ് ടി 1 പൂർത്തിയാക്കിയ ശേഷം സംഭവിച്ചേക്കാം ഈ മുഴുവൻ കാര്യവും തിരഞ്ഞു കമ്മിറ്റ് T0 കമ്മിറ്റ് T1 എന്നിവ രണ്ടും കണ്ടെത്തി T0 ന്റെ റീഡു ചെയ്യൽ ആദ്യം ചെയ്യണം തുടർന്ന് T1 ഈ ഡിഫർഡ് ഡാറ്റാബേസ് സ്കീമിന് ഉദാഹരണമാണ്